നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് തത്സമയ ടാസ്ക് പങ്കിടുന്നതിനെ കുറിച്ചായിരുന്നു തുടക്കത്തിൽ പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോകോൾ പരിശോധിച്ചു അത് വളരെ ലളിതമായ ഒരു പദ്ധതിയാണ് ഇവിടെ റിസോഴ്സ് നേടിയ കുറഞ്ഞ മുൻഗണനാ ചുമതല റിസോഴ്സിനായി കാത്തിരിക്കുന്ന ഉയർന്ന മുൻഗണനാ ചുമതലയുടെ മുൻഗണന നേടുന്നു എന്നാൽ അടിസ്ഥാന പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പദ്ധതിക്ക് രണ്ട് പ്രധാന പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ഡെഡ്ലോക്കുകളും ചെയിൻ ബ്ലോക്കിങ് പ്രശ്നവും ഒഴിവാക്കാൻ ഒന്നും ചെയ്തില്ല അവിടെ ഒന്നിലധികം വിഭവങ്ങൾ ആവശ്യമുള്ള ഉയർന്ന മുൻഗണനാ ചുമതല ഓരോ വിഭവങ്ങൾക്കും വിപരീത ഫലങ്ങൾ നേരിടുന്നു ഏറ്റവും ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിൽ ആ ഉറവിടങ്ങൾ ഉപയോഗിച്ചേക്കാവുന്ന ഉയർന്ന മുൻഗണനാ ചുമതലയെ ആശ്രയിച്ച് ഉറവിടങ്ങൾക്ക് സീലിംഗ് മുൻഗണനകൾ നിശ്ചയിച്ചിരിക്കുന്നു ഒരു ടാസ്ക് റിസോഴ്സ് നേടി കഴിഞ്ഞാൽ അതിന്റെ മുൻഗണന സീലിംഗ് മൂല്യത്തിന് തുല്യമായി വർദ്ധിപ്പിക്കും അതിനാൽ റിസോഴ്സ് ആവശ്യമില്ലാത്തതും എന്നാൽ ഉയർന്ന മുൻഗണനയുള്ളതുമായ മറ്റ് ജോലികൾ തടയും ഇതിനെ ഇൻഹെറിറ്റൻസ് ബ്ലോക്കിങ് എന്ന് വിളിക്കുന്നു കൂടാതെ ഏറ്റവും ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളും പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോളും ചർച്ച ചെയ്യും ഏറ്റവും ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിലെHighest Locker Protocol പ്രോപ്പർട്ടികൾ ചുവടെ ചേർക്കുന്നു ഒരു ടാസ്ക്കിന് അതിന്റെ ഉറവിടങ്ങളിലൊന്ന് ലഭിക്കുമ്പോൾ അത് ഇനി തടയപ്പെടില്ല ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോൾHighest Locker Protocol പ്രകാരം ചെയിൻ ബ്ലോക്കിങ് സംഭവിക്കാൻ കഴിയില്ല ഇതിനകം തന്നെ മറ്റൊരു ടാസ്ക് നേടിയ ഏതെങ്കിലും റിസോഴ്സ് ഉണ്ടെങ്കിൽ ആ ടാസ്കിന് ഉയർന്ന മുൻഗണന ഉണ്ടായിരിക്കും അതിനാൽ നിലവിലുള്ള ടാസ്ക് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാനാവില്ല അങ്ങനെ ഒരു ടാസ്ക് ഒരു വിഭവം സ്വന്തമാക്കുമ്പോൾ അതിന്റെ മുൻഗണന വർദ്ധിക്കുന്നു ഒരു ടാസ്ക്കിന് രണ്ട് റിസോഴ്സുകൾ R1 R2 എന്നിവ ആവശ്യമാണെന്ന് പറയട്ടെ ഈ രണ്ട് റിസോഴ്സുകളുമായി ബന്ധപ്പെട്ട സീലിംഗ് മൂല്യം ഞങ്ങൾ പരിഗണിക്കുന്ന ടാസ്കിന് തുല്യമോ വലുതോ ആയിരിക്കണം വിഭവങ്ങളിൽ ഒന്ന് മറ്റൊരു ടാസ്ക് ലോക്ക് ചെയ്തിരിക്കുന്നതിനാലോ അല്ലെങ്കിൽ ഈ രണ്ട് ഉറവിടങ്ങളും മറ്റൊരു ടാസ്ക് ലോക്ക് ചെയ്തിരിക്കുന്നതിനാലോ ടാസ്ക്കുകളിലൊന്ന് ലോക്കുചെയ്തിട്ടുണ്ടെന്ന് കരുതുക ഈ ടാസ്കിന് ആദ്യത്തെ റിസോഴ്സ് ആവശ്യമാണെന്നും ആദ്യത്തെ റിസോഴ്സ് സ്വതന്ത്രമാകുന്നതുവരെ ഇത് തടയുന്നുവെന്നും കരുതുക രണ്ടാമത്തെ റിസോഴ്സ് കൈവശമുള്ള ടാസ്ക് അതിന്റെ മുൻഗണന റിസോഴ്സിനായി കാത്തിരിക്കുന്ന ടാസ്ക്കിനേക്കാൾ താഴുന്നില്ലെങ്കിൽ റിസോഴ്സ് സീലിംഗ് മൂല്യം റിസോഴ്സ് അഭ്യർത്ഥിക്കുന്ന ടാസ്ക്കിനേക്കാൾ വലുതായിരിക്കണം അതിനാൽ ഏറ്റവും ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിന് കീഴിൽ ചെയിൻ ബ്ലോക്കിങ് സംഭവിക്കാൻ കഴിയില്ലെന്നും അതിനാൽ ഒരു ടാസ്ക്കിന് ഒരു ഉറവിടം നൽകുന്നതിനുമുമ്പ് അത് ആവശ്യപ്പെടുന്ന എല്ലാ ഉറവിടങ്ങളും സൌജന്യമായിരിക്കണം ഏറ്റവും ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിൽ ഇതിന് ചെയിൻ ബ്ലോക്കിങ് വിധേയമാകാൻ കഴിയില്ല ഡെഡ്ലോക്കിനോടനുബന്ധിച്ച് അതിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം കൂടാതെ ടാസ്ക് T1 T2 എന്നിവ ലളിതമായ പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പദ്ധതിയുടെ കാര്യത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ സമാന ശ്രേണികളാണെന്ന് കരുതുക സമാനമായ ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ ഇവിടെ ഊഹിക്കുക T2 ഒരു താഴ്ന്ന മുൻഗണനയായിരിക്കട്ടെ അത് R2 ലോക്ക് ചെയ്യുന്നു പക്ഷേ അത് R2 ലോക്ക് ചെയ്തുകഴിഞ്ഞാൽ T2 ന്റെ മുൻഗണന കുറഞ്ഞത് T1 ന് തുല്യമായി വർദ്ധിക്കുന്നു അതിനാൽ T1 തയ്യാറാകാൻ കഴിയില്ല കൂടാതെ R1 ലോക്ക് ചെയ്യുന്നതിന് CPU നേടാനും കഴിയില്ല T2 ന്റെ മുൻഗണന കുറഞ്ഞത് T1 നെക്കാൾ വർദ്ധിപ്പിക്കുകയും പിന്നീട് അത് R2 R1 ലോക്ക് ചെയ്യുകയും വീണ്ടും R1 R2 അൺലോക്ക് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഡെഡ്ലോക്ക് സംഭവിക്കാൻ കഴിയില്ല മറ്റേതെങ്കിലും ഉദാഹരണ എടുത്താൽ ഡെഡ്ലോക്ക് സംഭവിക്കാൻ കഴിയില്ല കാരണം T2 ന്റെ മുൻഗണന അത് ലോക്ക് ചെയ്യുന്ന റിസോഴ്സിന്റെ സീലിംഗ് പ്രിയോറിറ്റി യ്ക്ക് തുല്യമാക്കിയിരിക്കുന്നു മറ്റ് ജോലികൾക്ക് റിസോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ മുൻഗണന മറ്റ് ടാസ്കിന്റെ മുൻഗണനയേക്കാളും ആയിരിക്കും അൺ ബൌന്ദേദ് പ്രിയോറിറ്റി ഇൻവെർഷൻ തടയുന്നു കാരണം ടാസ്കിന്റെ മുൻഗണന അത് റിസോഴ്സ് നേടിയയുടനെ ഉയർന്ന മൂല്യത്തിലേക്ക് വർദ്ധിപ്പിക്കും അത് റിസോഴ്സിന്റെ സെയ്ലിംഗ് ആണ് ഏറ്റവും ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിന്റെ പ്രധാന പോരായ്മകൾ ഇൻഹെറിറ്റൻസ് ബ്ലോക്കിങ് ആണെന് ഞങ്ങൾ ഇതിനകം ചർച്ചചെയ്തു കുറഞ്ഞ മുൻഗണനയുള്ള ഒരു ടാസ്ക്കിന്റെ മുൻഗണനാ മൂല്യം ഒരു റിസോഴ്സ് നേടുന്നതിനനുസരിച്ച് ഉയർന്ന മൂല്യത്തിലേക്ക് ഉയർത്തുന്നു അതിനാൽ റിസോഴ്സ് ആവശ്യമില്ലാത്ത മറ്റ് ഇന്റർമീഡിയറ്റ് മുൻഗണനാ ടാസ്ക്കുകൾക്ക് ഇൻഹെറിറ്റൻസ് ബ്ലോക്കിങ് ന് വിധേയമാവുകയും ഇന്റർമീഡിയറ്റ് മുൻഗണനാ ടാസ്ക്കുകൾക്ക് അവരുടെ പ്രിയോറിറ്റി ഇൻവെർഷൻ നേരിടേണ്ടി വരികയും അവരുടെ സമയപരിധി നഷ്ടപ്പെടുകയും ചെയ്തേക്കാമെന്നതിനാൽ അവരുടെ സമയപരിധി നഷ്ടപ്പെടാം ഒരു ടാസ്ക്കിന്റെ ബ്ലോക്കിങ് സമയം ഇനിപ്പറയുന്നു മുൻകൂട്ടി ഉപയോഗിക്കാനാവാത്ത റിസോഴ്സ് S ഉപയോഗിക്കുന്ന എല്ലാ ജോലികളുടെയും കൂട്ടമാണ് Use എന്ന് നമുക്ക് അനുമാനിക്കാം കൂടാതെ CT k S റിസോഴ്സ് S ഉപയോഗിക്കുന്ന കണക്കുകൂട്ടൽ സമയമാണ് Tk ടാസ്കിനും അതുവഴി ഏതൊരു ടാസ്ക് Ti യെയും തടഞ്ഞു വെക്കാൻ കഴിയുന്ന പരമാവധി സമയം എന്നത് Tk S ഉപയോഗിക്കുന്ന പരമാവധി സമയത്തിന്റെയും Tk Use ഇൽ ഇരിക്കുന്ന സമയത്തിന്റെയും പരമാവധി ആയിരിക്കും എന്ന് വച്ചാൽ നമ്മൾ കണക്കാക്കുന്നത് റിസോഴ്സ് വേണ്ടാത്ത Ti യുടെ പരമാവധി ബ്ലോക്കിങ് ടൈം ആയിരിക്കും കുറഞ്ഞ മുൻഗണനയുള്ള എല്ലാ ജോലികളും അത് ഉപയോഗിക്കുന്ന വിഭവങ്ങളും ഞങ്ങൾ ആദ്യം കണ്ടെത്തുകയും റിസോഴ്സ് ഉപയോഗിച്ച് പരമാവധി കണക്കുകൂട്ടൽ സമയം കണ്ടെത്തുകയും ചെയ്യുന്നു കുറഞ്ഞ മുൻഗണനയുള്ള എല്ലാ ജോലികൾക്കും ഉണ്ടാകുന്ന ചോദ്യം വിഭവങ്ങൾ അവയുടെ ഉപയോഗം അവർ ഉപയോഗിക്കുന്ന പരമാവധി സമയം എന്നിവയെക്കുറിച്ചാണ് അതാണ് ടാസ്ക്കിനെ ബ്ലോക്കിങ് ടൈം പല ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും ഏറ്റവും ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് മുൻഗണന ലോക്കിംഗ് മ്യൂട്ടക്സ് ഉള്ള POSIX സ്റ്റാൻഡേർഡ് ഇവിടെ p ത്രെഡിനും PRIO protect നും ഈ മുൻഗണനയുണ്ട് PRIO protect അടിസ്ഥാനപരമായി ഏറ്റവും ഉയർന്ന ലോക്കർ പ്രോട്ടോക്കോളാണ് ഇതിനെ POSIX പിന്തുണയ്ക്കുന്നു ലിനക്സ് ഏറ്റവും ഉയർന്ന ലോക്കർ പ്രോട്ടോക്കോളിനെlocker protocol പിന്തുണയ്ക്കുന്നില്ല പക്ഷേ മറ്റ് പ്രോഗ്രാമിംഗ് ഭാഷകൾ ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിനെhighest locker protocol പിന്തുണയ്ക്കുന്നു ജാവയുടെ തത്സമയ സവിശേഷത പോലും ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിനെhighest locker protocol പിന്തുണയ്ക്കുന്നു എന്നിരുന്നാലും ഇതിനെ പ്രിയോറിറ്റി സീലിംഗ് എമുലേഷൻ എന്ന് വിളിക്കുന്നു പാരമ്പര്യവുമായി ബന്ധപ്പെട്ട പ്രിയോറിറ്റി ഇൻവെർഷൻ ന് കടുത്ത പ്രശ്നമുണ്ട് അവിടെ റിസോഴ്സ് ആവശ്യമില്ലാത്ത ഇന്റർമീഡിയറ്റ് മുൻഗണനാ ജോലികൾ വിപരീതത്തിന് വിധേയമാവുകയും പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ ഈ പോരായ്മയെ ഒരു പരിധി വരെ മറികടക്കുകയും ചെയ്യുന്നു അടിസ്ഥാന പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പദ്ധതിയുടെ പോരായ്മകളെക്കുറിച്ചും ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിനെക്കുറിച്ചും ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിനേക്കാളും നൂതനമായ തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലേക്കാണ് പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ PCP ഉപയോഗിക്കുന്നത് എന്നാൽ ലളിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ PCP ഉപയോഗിക്കരുത് കാരണം ഈ പദ്ധതി അടിസ്ഥാന പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പദ്ധതിയെക്കാൾ അല്പം സങ്കീർണ്ണമാണ് ഏറ്റവും ഹൈഎസ്റ് ലോക്കർ സ്കീമിൽ ഓരോ റിസോഴ്സിനും ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോൾ പോലെ ഒരു മുൻഗണന പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കൂടാതെ ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിനെ സംബന്ധിച്ച പ്രധാന വ്യത്യാസം ഒരു ടാസ്ക് മുൻഗണന ഒരു റിസോഴ്സ് നേടിയാലുടൻ റിസോഴ്സിന്റെ സീലിംഗ് മുൻഗണനയ്ക്ക് തുല്യമാകില്ല എന്നതാണ് എന്നാൽ ഇവിടെ ഇത് ഒരു സിസ്റ്റം വേരിയബിൾ മാത്രമാണ് മൂല്യം സീലിംഗ് മൂല്യത്തിന് തുല്യമാകും അതായത് ഒരു റിസോഴ്സ് സ്വന്തമാക്കുമ്പോൾ ചുമതലയുടെ മുൻഗണന മാറില്ല പക്ഷേ നിലവിലെ സിസ്റ്റം സീലിംഗ് എന്ന് പേരുള്ള സിസ്റ്റം വേരിയബിൾ മാത്രം അതിന്റെ മൂല്യം വർദ്ധിക്കുന്നു ഉദാഹരണത്തിന് R എന്നത് T10 T2 T5 എന്നീ മൂന്ന് ടാസ്ക്കുകൾ ഉപയോഗിക്കുന്ന ഒരു മുൻഗണനയില്ലാത്ത വിഭവമാണെങ്കിൽ R മായി ബന്ധപ്പെട്ട സീലിംഗ് മൂല്യം T2 ന് തുല്യമാണെങ്കിൽ ടാസ്കിന്റെ മുൻഗണന അത് ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിൽ നിന്ന് വ്യത്യസ്തമായി റിസോഴ്സ് നേടുന്നില്ല പകരം അതേ മുൻഗണനയോടെ തുടരുന്നു പക്ഷേ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേരിയബിൾ ഉണ്ട് റിസോഴ്സ് നേടുന്ന ഏതെങ്കിലും ടാസ്ക്കുകൾ വരുമ്പോൾ മൂല്യം രണ്ടായി മാറുന്നു പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോളും പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോളും തമ്മിലുള്ള വ്യത്യാസം പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോൾ അത്യാഗ്രഹപരമായ സമീപനമാണ് അതായത് ഒരു ദ ടാസ്കിനു ഒരു വിഭവം ആവശ്യമുള്ളപ്പോഴെല്ലാം അത് ലഭിക്കുന്നു വിഭവം വെറുതെ ഇരിക്കുക ആണെങ്കിൽ പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോളിൽ ഒരു റിസോഴ്സ് ലഭ്യമാണെങ്കിൽപ്പോലും ആ റിസോഴ്സിനായി അഭ്യർത്ഥിക്കുമ്പോൾ ഒരു ടാസ്ക് നിർവ്വഹിക്കുന്നു ചില സാഹചര്യങ്ങളിൽ അത് ലഭിക്കാനിടയില്ല അതിനാൽ പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോളിൽ ഒരു അത്യാഗ്രഹപരമായ പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോളിന് വിപരീതമായി അത്യാഗ്രഹപരമായ സമീപനമല്ലെന്ന് പറയാം നിലവിലെ സിസ്റ്റം സീലിംഗ് എന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേരിയബിളാണ് ഒരു ടാസ്ക് ഒരു റിസോസ്വന്തമാക്കുമ്പോഴെല്ലാം ടാസ്കിന്റെ മുൻഗണന വർദ്ധിക്കുന്നില്ല മറിച്ച് നിലവിലുള്ള സിസ്റ്റം സീലിംഗ് മാത്രമാണ് എല്ലാ വിഭവങ്ങളുടെയും പരമാവധി സീലിംഗിന്റെ മൂല്യം നേടുന്നത് നിലവിൽ ഉപയോഗിക്കുന്ന വിഭവങ്ങളുടെ കൂട്ടമാണ് CRi എങ്കിൽ CRiയുടെ പരിധി പരമാവധി CSC ആയി മാറുന്നു രണ്ട് ഉറവിടങ്ങളുണ്ടെങ്കിൽ നമുക്ക് CR1 CR2 എന്ന് പറയാം CR1 ന്റെ സീലിംഗ് മൂല്യം 5 ഉം CR2 ന്റെ സീലിംഗ് മൂല്യം 2 ഉം 2 ഉം ഉയർന്ന മുൻഗണനയാണ് രണ്ട് റിസോഴ്സുകളും ഉപയോഗിച്ചാൽ CSC 2 ആയി സജ്ജമാക്കും സിസ്റ്റത്തിന്റെ തുടക്കത്തിൽ CSC 0 ആയി സമാരംഭിക്കും സീലിംഗ് പ്രോട്ടോക്കോൾ പ്രകാരം വിഭവ പങ്കിടൽ ചർച്ച ചെയ്യപ്പെടും യഥാർത്ഥത്തിൽ രണ്ട് നിയമങ്ങളുണ്ട് ഒരു ടാസ്ക് ഒരു റിസോഴ്സ് അഭ്യർത്ഥിക്കുമ്പോൾ റിസോഴ്സ് റിക്വസ്റ്റ് റൂൾ എന്ന് വിളിക്കുമ്പോൾ ആദ്യ റൂൾ ബാധകമാണ് രണ്ടാമത്തെ റൂളിനെ ഒരു റിക്വസ്റ്റ് റിലീസ് റൂൾ എന്ന് വിളിക്കുന്നു ഒരു ടാസ്ക് ഒരു റിസോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ ഈ റൂൾ ബാധകമാണ് റിസോഴ്സ് റിക്വസ്റ്റ് നിയമത്തിൽ രണ്ട് ക്ലോസുകൾ ഉണ്ട് ആദ്യം സോഴ്സ് ഗ്രാന്റ് ക്ലോസ് ഉണ്ട് അവിടെ ഒരു ടാസ്ക്കിന് ഒരു റിസോഴ്സ് അനുവദിക്കുകയും രണ്ടാമത്തേത് ഇൻഹെറിറ്റൻസ് ക്ലോസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഒരു ടാസ്ക് ആവശ്യപ്പെട്ട റിസോഴ്സ് ലഭിക്കാത്തപ്പോൾ ഇത് പ്രയോഗിക്കുന്നു പക്ഷേ അത് ബ്ലോക്ക് ആകും റിക്വസ്റ്റ് ഗ്രാന്റ് ക്ലോസിൽ ടാസ്ക് റിസോഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ നിലവിലെ സിസ്റ്റം സീലിംഗ് അത് ലഭിച്ച റിസോഴ്സിന്റെ സീലിംഗ് ഉപയോഗിച്ച് പരിശോധിക്കുകയും സീലിംഗ് നിലവിലെ സിസ്റ്റം സീലിംഗിനേക്കാൾ വലുതാണെങ്കിൽ നിലവിലെ സിസ്റ്റം സീലിംഗ് റിസോഴ്സിലേക്ക് സജ്ജമാക്കുകയും ചെയ്യുന്നു ഒരു ഉറവിടത്തിന്റെ മുൻഗണന CSC യെക്കാൾ വലുതായില്ലെങ്കിൽ അത് ലോക്കു ചെയ്യാൻ അനുവദിക്കില്ല റിസോഴ്സ് ഗ്രാന്റ് ക്ലോസിൽ ടാസ്ക്കിന്റെ മുൻഗണന നിലവിലെ സിസ്റ്റം സീലിംഗ് ഉപയോഗിച്ച് പരിശോധിക്കുകയും അതിന്റെ മുൻഗണന നിലവിലെ സിസ്റ്റം സീലിംഗിനേക്കാൾ വലുതാണെങ്കിൽ അതിന് റിസോഴ്സ് നൽകുകയും നിലവിലെ സിസ്റ്റം സീലിംഗ് സീലിംഗ് അനുവദിച്ച വിഭവത്തിന്റെ മൂല്യത്തിന് തുല്യമായി സജ്ജമാക്കുകയും ചെയ്യുന്നു റിസോഴ്സ് ഗ്രാന്റ് ക്ലോസ് ഇവിടെ സംഗ്രഹിക്കുന്നു ഒരു ടാസ്ക് ആദ്യം റിസോഴ്സിനോട് അഭ്യർത്ഥിക്കുമ്പോൾ അതിന്റെ മുൻഗണന നിലവിലെ സിസ്റ്റം സീലിംഗുമായി താരതമ്യപ്പെടുത്തുകയും അതിന്റെ മുൻഗണന നിലവിലെ സിസ്റ്റം സീലിംഗിനേക്കാൾ വലുതാണെങ്കിൽ അതിന് റിസോഴ്സ് നൽകുകയും CSC മൂല്യം സീലിംഗിന് തുല്യമായി സജ്ജമാക്കുകയും ചെയ്യുന്നു വിഭവത്തിന്റെ മുൻഗണന ടാസ്ക്കിന്റെ റിസോഴ്സ് മുൻഗണന അഭ്യർത്ഥിക്കുന്ന ടാസ്ക് CSCയെക്കാൾ കുറവാണെങ്കിൽ അത് റിസോഴ്സ് അനുവദിക്കുന്നില്ല അത് തടയുന്നു റിസോഴ്സ്ന്റെ റിസോഴ്സ് ഗ്രാന്റ് ക്ലോസിൽ ഇവിടെ രണ്ട് ക്ലോസുകൾ ഉണ്ട് ഒന്നാമതായി ടാസ്കിന്റെ മുൻഗണന സീലിംഗ് മുൻഗണനയേക്കാൾ വലുതാണെങ്കിൽ അതിന് റിസോഴ്സ് നൽകുകയും നിലവിലെ സിസ്റ്റം സീലിംഗ് റിസോഴ്സുമായി ബന്ധപ്പെട്ട സീലിംഗിന് തുല്യമാവുകയും ചെയ്യുന്നു എന്നാൽ അതിന്റെ മുൻഗണന നിലവിലെ സിസ്റ്റം സീലിംഗിനേക്കാൾ വലുതല്ലെങ്കിലും CSCക്ക് തുല്യമായ സീലിംഗ് മുൻഗണനയുള്ള ഏതെങ്കിലും റിസോഴ്സ് കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ പോലും CRലേക്ക് പ്രവേശനം അനുവദിക്കും ഇതിന് റിസോഴ്സിലേക്ക് ആക്സസ് അനുവദിച്ചിട്ടില്ല അത് തടയുന്നു ചുമതല ക്രിട്ടിക്കൽ റിസോഴ്സ് നൽകിയ ഉടൻ നിലവിലെ സിസ്റ്റം സെയ്ലിംഗ് നിലവിലെ സിസ്റ്റം സിലിങ്ങിനെക്കാൾ വലുതായാൽ കൊടുക്കുന്ന റിസോഴ്സ്സിന്റെ സിലിങ്ങിന് തുല്യമാക്കുന്നു ഇൻഹെറിറ്റൻസ് ക്ലോസിൽ തടയാൻ ഒരു ടാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതായത് അതിന് റിസോഴ്സ് അനുവദിച്ചിട്ടില്ല തുടർന്ന് ആ റിസോഴ്സ് കൈവശമുള്ള ടാസ്ക് തടഞ്ഞ റിസോഴ്സിന്റെ മുൻഗണന നേടുന്നു ഒരു റിസോഴ്സ് കൈവശം വച്ചിരിക്കുന്ന ഒരു ടാസ്ക് ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ മുൻഗണനയെ മാറ്റില്ല പക്ഷേ ഒരു റിസോഴ്സിനായി ഒരു ടാസ്ക് തടയുമ്പോൾ മാത്രം അത് ടാസ്ക്കിന്റെ മുൻഗണന നേടുന്നു റിസോഴ്സ് ഗ്രാന്റ് റൂളിന്റെ വിപരീതമായ റിസോഴ്സ് റിലീസ് റൂളിൽ ഒരു ടാസ്ക് റിസോഴ്സ് പുറത്തിറക്കിയാലുടൻ CSC വീണ്ടും ഉപയോഗത്തിലുള്ള എല്ലാ റിസോഴ്സുകളിലും ഉള്ള എല്ലാ ജോലികളും പരിശോധിക്കുകയും പരിധി പരമാവധി സജ്ജമാക്കുകയും ചെയ്യുന്നു അതിന്റെ നിലവിലെ സിസ്റ്റം സീലിംഗ് നിലവിലുള്ള റിസോഴ്സിന്റെ സീലിംഗിന് തുല്യമാണെങ്കിൽ CSC മാറ്റമില്ലാതെ തുടരുന്നു മേൽപ്പറഞ്ഞവയെ സംഗ്രഹിക്കുന്നത് നിലവിലുള്ള സിസ്റ്റം സീലിംഗ് ഉപയോഗത്തിലുള്ള വിഭവങ്ങളുടെ പരമാവധി പരിധിയാണെന്നും CSCക്ക് തുല്യമായ ഒരു റിസോഴ്സ് മടക്കിനൽകുകയാണെങ്കിൽ എല്ലാ വിഭവങ്ങളും പരിശോധിക്കുകയും അവയുടെ സീലിംഗ് മൂല്യങ്ങൾ നേടുകയും ആ സീലിംഗിന്റെ പരമാവധി മൂല്യം CSCക്ക് നൽകും നിലവിലെ റിസോഴ്സിന്റെ സീലിംഗ് മൂല്യം CSCയേക്കാൾ കുറവാണെങ്കിൽ CSC മാറ്റമില്ലാതെ തുടരുന്നു കൂടാതെ T1 ന്റെ മുൻഗണനയും അപ്ഡേറ്റുചെയ്യുന്നു അത് ഒരു റിസോഴ്സ് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ആ റിസോഴ്സിനെ തടയുന്ന ഏതൊരു ജോലിയും മുൻഗണന പാരമ്പര്യമായി ലഭിച്ചേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ ടാസ്ക് മുൻഗണന യഥാർത്ഥ മുൻഗണനയിലേക്ക് പഴയപടിയാക്കുന്നു ചില ഉദാഹരണങ്ങൾ വച്ചു സീലിംഗ് പ്രോട്ടോക്കോളുകളുടെ പ്രവർത്തനം ഇനിപ്പറയുന്നവയാണ് T1T2T3 എന്നീ ടാസ്കുകൾ ക്രിട്ടിക്കൽ റിസോഴ്സ് ഉപയോഗിക്കുന്നു T1 ന്റെ മുൻഗണന 10 T2 ന്റെ മുൻഗണന 2 ഉം T3 ന്റെ മുൻഗണന 5 ഉം ആണ് CR1 ഉപയോഗിക്കാൻ കഴിയും CR1 മായി ബന്ധപ്പെട്ട സീലിംഗ് മുൻഗണന 10 ആണ് ഇത് വിൻഡോ അധിഷ്ഠിത സിസ്റ്റത്തിലെന്നപോലെ 10 ആണ് ഏറ്റവും ഉയർന്ന മുൻഗണനയെന്ന് അനുമാനിക്കുന്നു നിലവിലെ സിസ്റ്റം സീലിംഗ് ആരംഭിക്കാൻ 0 ആയി സജ്ജീകരിച്ച് T3 CR1 ലോക്ക് ചെയ്യുന്നുവെന്ന് കരുതുക ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിൽ നിന്ന് വ്യത്യസ്തമായി T3 യുടെ മുൻഗണന മാറില്ല ഇത് ഉയർന്ന മുൻഗണനയോടെ തുടരുന്നു പക്ഷേ നിലവിലെ സിസ്റ്റം സീലിംഗ് CR1 ന്റെ സീലിംഗ് മുൻഗണനയ്ക്ക് തുല്യമാണ് അത് 10 ന് തുല്യമാണ് CSC മൂല്യം വർദ്ധിക്കുന്നു അടുത്ത തവണ മറ്റൊരു ടാസ്ക് ഒരു റിസോഴ്സിനായി അഭ്യർത്ഥിക്കുന്നുവെന്ന് കരുതുക ഇത് ടാസ്ക് T2 ആണ് അതിന്റെ മുൻഗണന 2 ആണ് അത് റിസോഴ്സ് സ്വന്തമാക്കി നിലവിലെ സിസ്റ്റം സീലിംഗ് 10 ആയി സജ്ജമാക്കി T2 ന്റെ മുൻഗണനയായി നിർവ്വഹിക്കുന്ന ഒരു ടാസ്ക് T3 ഉണ്ടെന്ന് നമുക്ക് പറയാം മാറുന്നില്ല ഇത് മുൻഗണന ലെവൽ 2 ൽ പ്രവർത്തിക്കുന്നത് തുടരുന്നു കൂടാതെ T3 മുൻഗണന 5 എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ടാസ്ക് നമുക്ക് പറയാം കുറച്ച് സമയത്തിന് ശേഷം അത് T2 അഭ്യർത്ഥിക്കുന്നു ഈ കേസിൽ ഇൻഹെറിറ്റൻസ് ക്ലോസ് ബാധകമാവുകയും T2 ന്റെ മുൻഗണന 5 ആകുകയും ചെയ്യും അത് റിസോഴ്സ് പുറത്തിറക്കിയാലുടൻ റിലീസ് ക്ലോസ് ബാധകമാവുകയും പഴയ മുൻഗണനയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു 2 നിലവിലെ സിസ്റ്റം സീലിംഗ് T3 CR ഉപയോഗിക്കുന്നതിനാൽ ഇപ്പോഴും 10 ആണ് റിസോഴ്സിന്റെ സീലിംഗ് മുൻഗണന നിലവിലെ സിസ്റ്റം സീലിംഗിന് നൽകിയിരിക്കുന്നു മറ്റൊരു റിസോഴ്സ് CR2 ആവശ്യമുള്ള മറ്റൊരു ജോലിയാണ് T4 എന്ന് നമുക്ക് പറയാം ഈ റിസോഴ്സ് ലോക്ക് ചെയ്യാൻ അനുവദിക്കില്ല കാരണം T4 ന്റെ മുൻഗണന CSCയുമായി താരതമ്യപ്പെടുത്തും അത് T4 ന്റെ മുൻഗണന 6 ആണെങ്കിലും T3 നെക്കാൾ വലുതാണ് പക്ഷേ അത് നിഷ്ക്രിയമായ ഒരു റിസോഴ്സിനായി അഭ്യർത്ഥിക്കുന്നു CR2 അനുവദിക്കില്ല കാരണം മുൻഗണനാ ഗ്രാന്റ് ക്ലബ്ബുകളിൽ T4 ന്റെ മുൻഗണന നിലവിലെ സിസ്റ്റം സീലിംഗുമായി താരതമ്യപ്പെടുത്തും കൂടാതെ നിലവിലെ സിസ്റ്റം സീലിംഗ് മുൻഗണന T4 നേക്കാൾ കൂടുതലായതിനാൽ റിസോഴ്സ് ലോക്ക് ചെയ്യാൻ T4 അനുവദിക്കില്ല പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോളിൽ ഒരു ടാസ്ക്കിന് ഒരു റിസോഴ്സ് നൽകുമ്പോൾ അതിന്റെ മുൻഗണന യഥാർത്ഥത്തിൽ മാറുന്നില്ല മാത്രമല്ല ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോക്കോളിൽ നിന്ന് വ്യത്യസ്തമായി നിലവിലെ സിസ്റ്റം സീലിംഗ് മാത്രമേ മാറുന്നുള്ളൂ ഒപ്പം ചുമതല സ്വന്തം മുൻഗണനയോടെ നിർവ്വഹിക്കുന്നത് തുടരുകയുമാണ് റിസോഴ്സ് വേണ്ടാത്ത ടാസ്കുകൾ ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോകോൾ ടാസ്കുകളെ പോലെ തടയപ്പെടില്ല കാരണം കുറഞ്ഞ പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ റിസോഴ്സ് നേടും ഇത് സംഭവിക്കുന്നില്ല ഇതിനെ നമ്മൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ എന്ന് വിളിക്കും ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ ആ അർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നില്ല കാരണം ഒരു ടാസ്ക് ഒരു വിഭവം നേടിയാലുടൻ അതിന്റെ മുൻഗണനാ മൂല്യം മാറില്ല മറ്റ് ജോലികൾ പതിവുപോലെ നടപ്പിലാക്കുന്നത് തുടരുകയും ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ബ്ലോക്കിങ് ഒന്നും സംഭവിക്കുന്നില്ല മറ്റൊരു ടാസ്ക് കൈവശം വച്ചിരിക്കുന്ന റിസോഴ്സിനായി അഭ്യർത്ഥിക്കുമ്പോൾ ഇൻഹെറിറ്റൻസ് ക്ലോസ് ബാധകമാവുകയും ടാസ്ക് മുൻഗണന വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ടാസ്ക്കിന്റെ മുൻഗണന മാറുന്നു പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഇത് ഡെഡ്ലോക്കുകൾ ചെയിൻ ബ്ലോക്കിങ് അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ എന്നിവ തടയുന്നുവെന്നും ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ പരിമിതപ്പെടുത്തുന്നുവെന്നും നിരീക്ഷിക്കാൻ കഴിയും ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോകോൾ ന്റെ ഒരു വലിയ പ്രശ്നമാണ് ഇത് ഈ പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് വലിയ അളവിൽ ചുരുക്കിയിരിക്കുന്നു പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ ഹൈഎസ്റ് ലോക്കർ പ്രോട്ടോകോൾനേക്കാൾ അല്പം സങ്കീർണ്ണമായ പ്രോട്ടോക്കോളാണെങ്കിലും ഇപ്പോഴും ഇത് പല ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്നു പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോക്കോൾ ൽ സംഭവിക്കാവുന്ന വ്യത്യസ്ത തരം മുൻഗണനാ വിപരീതങ്ങൾ മൂന്ന് തരത്തിലാണ് അതായത് ഡയറക്റ്റ് ഇൻവെർഷൻ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ഇൻവെർഷൻ അവോയ്ഡൻസ് റിലേറ്റഡ് ഇൻവെർഷൻ ഡയറക്റ്റ് ഇൻവെർഷൻ ലളിതമാണ് അവിടെ കുറഞ്ഞ മുൻഗണനയുള്ള ഒരു ടാസ്ക് ഒരു റിസോഴ്സ് കൈവശം വയ്ക്കുകയും ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് റിസോഴ്സ് റിലീസ് ചെയ്യുന്നതുവരെ കാത്തിരിക്കുകയും വേണം ഡയറക്റ്റ് ഇൻവെർഷൻൽ കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് ഒരു റിസോഴ്സ് കൈവശം വയ്ക്കുമ്പോൾ ഉയർന്ന മുൻഗണനാ ചുമതല കാത്തിരിക്കേണ്ടതുണ്ട് കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് റിസോഴ്സിന്റെ ഉപയോഗങ്ങൾ പൂർത്തിയാക്കി അത് റിലീസ് ചെയ്യുന്നതുവരെ ആ റിസോഴ്സിന് ആവശ്യമുള്ള ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് കാത്തിരിക്കേണ്ടതുണ്ട് 6 ടാസ്ക്കുകളും ക്രിട്ടിക്കൽ റിസോഴ്സുകളും ഓരോ ടാസ്ക്കിനും ആവശ്യമായ ആവശ്യങ്ങൾ പ്രതിനിധീകരിക്കുന്ന സമയപരിധിയും മുകളിലുള്ള ടാസ്ക് ഗ്രാഫിൽ നൽകിയിട്ടുണ്ടെന്ന് കരുതുക T1T2 എന്നിവയ്ക്ക് R1 ആവശ്യമാണ് T1ന് 5 യൂണിറ്റുകൾക്കും T2 ന് 2 യൂണിറ്റുകൾക്കും ആവശ്യമാണ് R3 ന് T2 ഉം T6 ഉം R2 ന് T1 ഉം T4 ഉം യഥാക്രമം 1 5 യൂണിറ്റുകൾ ആവശ്യമാണ് ടാസ്ക്കുകൾ അവരുടെ മുൻഗണനാ മൂല്യങ്ങൾക്കനുസൃതമായി തരംതിരിച്ചിട്ടുണ്ടെന്ന് കരുതുക T1 ആണ് ഏറ്റവും ഉയർന്ന മുൻഗണന T6 ഏറ്റവും കുറഞ്ഞ മുൻഗണനയും ഡയറക്റ്റ് ഇൻവെർഷൻനും സംഭവിക്കാം T2 R1 പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രിയോറിറ്റി ഉണ്ടെങ്കിൽ പോലും T2 നെയും R1 നെയും വച്ച് T1 2 സമയത്തേക്കു വെയിറ്റ് ചെയേണ്ടി വരും അതുപോലെ T2ന് T6 ഉം റിസോഴ്സ് R3 ഉം 8 കാലത്തേക്ക് ഡയറക്റ്റ് ഇൻവെർഷൻ നു വിധേയമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ T1 ന്റെ ഏറ്റവും മോശം അവസ്ഥ T4 ന്റെ 5 യൂണിറ്റ് വിപരീതമാണ് നേരിട്ടുള്ള വിപരീതം ഉയർന്ന മുൻഗണനയുള്ള ഒരു ജോലിയാണ് ഇത് കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് കാരണം നേരിട്ടുള്ള വിപരീതത്തിന് വിധേയമാകും ഉറവിടം കൈവശം വച്ചിരിക്കുന്നു ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് പ്രിയോറിറ്റി സീലിംഗ് പ്രോട്ടോകോളിൽ സംഭവിക്കാവുന്ന മറ്റ് തരം വിപരീതങ്ങളും അടുത്ത പ്രഭാഷണത്തിൽ ഞങ്ങൾ നോക്കും നന്ദി